നാം പ്ലാനാർ സർക്യൂട് പിന്നെ അളവുകൾ എന്താണെന്നും നിർവചിച്ചു ഇനി നമുക്ക് മെഷ് അനാലിസിസ് പ്രയോഗിച്ചു നോക്കാം ആദ്യം നോക്കുന്ന സർക്യൂട്ടിൽ റെസിസ്റ്ററുകളും ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് മാത്രമേ ഉണ്ടാകൂ നിങ്ങൾക്കു മനസിലാക്കാം ഇത് നോഡൽ അനാലിസിസ് എന്നതിന്റെ മറുഭാഗം ആണ് അവിടെ നാം ആദ്യം നോക്കിയത് റെസിസ്റ്ററുകളും ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സുകളും മാത്രമുള്ള സർക്യൂട് ആണ് അത് നോഡൽ അനാലിസിസിന്റെ ഏറ്റവും സൌകര്യപ്രദമായ കേസ് ആണ് അതുപോലെ റെസിസ്റ്ററുകളും ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് മാത്രമുള്ള സർക്യൂട് ആണ് മെഷ് അനാലിസിസിൽ ഏറ്റവും സൌകര്യപ്രദം ഈ പ്രത്യേക സർക്യൂട് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ V1 പിന്നെ R11 R13 R12 R23 R22 പിന്നെ R33 അവസാനം ഇത് ഞാൻ V2 ആയും അടയാളപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് ഈ മൂന്നു അളവുകൾ വളരെ വ്യക്തമായി കാണാം ഒന്നിവിടെ പിന്നെ ഒന്നിവിടെ മറ്റൊന്ന് ഇവിടെ വൃത്തിയായ സർക്യൂട്ടിൽ ഇത് തിരിച്ചറിയുക എന്നത് എളുപ്പമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ കറൻറ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുക എന്നതാണ് അവയെ മെഷ് കറന്റ് എന്നാണ് വിളിക്കുക പിന്നെ ഇവിടെ പാരമ്പരയനുസരിച്ചു പോസിറ്റീവ് ദിശ എടുക്കുന്നു അപ്പോൾ ഇത് i1 പിന്നെ ഇത് i2 അവസാനം ഇത് i3 ഇത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഓരോ മെഷ് ആയി എടുക്കുന്നു പിന്നെ അതിൽ ഓരോന്നിലും കറന്റ് ഏതൊക്കെ ആണെന്ന് തിരിച്ചറിയുന്നു ഇതെന്താണ് ഈ ബ്രാഞ്ച് കറന്റ് എന്നത് മെഷ് കറന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഒരു ബ്രാഞ്ച് എന്നത് ഒരു മെഷിൽ മാത്രമാണെങ്കിൽ ഇവിടെ ഇവ രണ്ടും ഒന്നായിരിക്കും ഉദാഹരണത്തിന് ഈ R11 പിന്നെ V1 എന്നിവ ഇവ ഈ മെഷ് 1 ൽ മാത്രമാണ് ഉള്ളത് ഈ മെഷ് കറന്റ എന്നത് ക്ലോക്ക് വൈസ് ദിശയിൽ ആണ് ഇനി ഈ ബ്രാഞ്ചുകളിലെ കറന്റ് എന്നത് മെഷ് കറന്റ് ആണ് ഈ ബ്രാഞ്ച് ഒരു മെഷിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ ഞാൻ അവ ഏതൊക്കെ എന്ന് നോക്കുന്നു ഈ R11 എന്നത് i1 തന്നെ ആണ് നാം ഇത് പിന്നീട് ചെയ്യുന്നതാണ് എങ്കിലും ഓരോ ബ്രാഞ്ചിലെ കറന്റും ഞാൻ മെഷ് കറന്റുമായി ബന്ധപ്പെടുത്തുകയാണ് എന്നാൽ ഈ i1 എന്നത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് പിന്നീട് നോക്കും ഞാൻ ആദ്യമേ മെഷ് കറന്റ് ഏതൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഓരോ ബ്രാഞ്ച് കറന്റും ഇവയുടെ രൂപത്തിൽ എഴുതാൻ പോകുന്നു ഇത് നാം നോഡ് വോൾടേജ് എടുത്തത് പോലെത്തന്നെ ആണ് ഓരോ ബ്രാഞ്ചിലെ വോൾട്ടേജും നാം നോഡ് വോൾടേജ് ആക്കിയത് പോലെ അതിനാൽ ഇവിടെ i1 പിന്നെ ഇവിടെ i2 ഇവ നാം ശരിയായ ദിശയിലാണു എടുക്കുന്നത് പിന്നെ ഈ R22 ലൂടെ ഉള്ള കറന്റ് എന്നത് i2 ആണ് അത് പോലെ അത് തന്നെ ആണ് V2 ലൂടെയും അതുപോലെ R33 ലൂടെ ഉള്ള കറന്റ് എന്നത് i3 ആണ് ഈ i1 i2 i3 എന്നിവ നാം പിന്നീട് കണ്ടുപിടിക്കുന്നതാണ് ഇനി ഒരു ബ്രാഞ്ച് എന്നത് പല മെഷിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ബ്രാഞ്ച് എന്നത് പരമാവധി രണ്ടു മെഷിൽ ആണ് പൊതുവായി ഉണ്ടാകുക അപ്പോൾ ഈ ബ്രാഞ്ച് കറന്റ് എന്നിവ ആ രണ്ടു മേഷുകളുടെ കറന്റിന്റെ തുക ആയിരിക്കും നാം എല്ലാ മെഷ് കറന്റുകളും ക്ലോക്ക് വൈസ് ദിശയിൽ എടുത്താൽ ഈ രണ്ടു മെഷിനു പൊതുവായുള്ള ബ്രാഞ്ചിൽ എന്താണ് സംഭവിക്കുക ഈ R12 ൽ i1 എന്ന കറന്റ് താഴേക്കും പിന്നെ i2 എന്ന കറന്റ് മുകളിലേക്കും ആണ് ഇത് മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും ആറു കറന്റിന്റെ ദിശക്ക് വിപരീതമായിരിക്കും അടുത്ത കറന്റ് അപ്പോൾ അവയുടെ വ്യത്യാസമായിരിക്കും നമുക്ക് കണക്കു കൂട്ടേണ്ടി വരിക നമുക്ക് പറയാം ഈ R12 ലൂടെയുള്ള കറന്റ് എന്നത് i1 i2 പിന്നെ R23 ലൂടെ ഉള്ള കറന്റ് എന്നത് i1 i2 പിന്നെ R13 എന്നത് i1 i2 ഇവയാണ് ഒന്നിൽ കൂടുതൽ മെഷിനു പൊതുവായുള്ള ബ്രാഞ്ചുകൾ അപ്പോൾ ഇവിടെ കറന്റ് എന്നത് മെഷ് കറന്റുകളുടെ വ്യത്യാസമായിരിക്കും ഇപ്പൊൾ നിങ്ങൾക്കു നോഡൽ അനാലിസിസിന്റെയും മെഷ് അനാലിസിസിന്റെയും തമ്മിലുള്ള സാമ്യം മനസിലാക്കാം നോഡൽ കേസിൽ ഒരു ബ്രാഞ്ചിന്റെ വോൾടേജ് എന്നത് ഒരു നോഡൽ വോൾടേജ് ആകാം അല്ലെങ്കിൽ രണ്ടു നോഡുകളുടെ വോൾട്ടേജിന്റെ വ്യത്യാസവും ആകാം ഇനി ഒരു ബ്രാഞ്ച് കണക്ട് ചെയ്തത് റഫറൻസ് നോഡ് അല്ലാത്ത രണ്ടു നോഡുകൾ തമ്മിൽ ആണെങ്കിൽ ഈ നോഡൽ വോൾട്ടേജുകളുടെ വ്യത്യാസമായിരിക്കും അത് പോലെ മെഷ് അനാലിസിസിൽ ഒരു ബ്രാഞ്ച് എന്നത് പുറത്താണെങ്കിൽ അത് ഒരു ഒറ്റ മെഷിന്റെ മാത്രം ആയിരിക്കും പിന്നെ കറന്റ് എന്നത് മെഷ് കറന്റ് ആയിരിക്കും അങ്ങനെ അല്ല എങ്കിൽ രണ്ടു മെഷ് കറന്റുകളുടെ വ്യത്യാസമായിരിക്കും ഇനി ഒരു വ്യത്യാസം എന്നത് നോഡൽ വോൾടേജ് എന്നത് പോലെ ഈ മെഷ് കറന്റ് എന്നത് സർക്യൂട്ടിൽ എവിടെ വേണമെങ്കിലും ആകാൻ പാടില്ല ഞാൻ ഉദ്ദേശിച്ചത് നോഡൽ വോൾടേജ് എന്നത് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും അളക്കാം അതായതു നിങ്ങൾക്കു നോഡ് x നും റഫറൻസ് നോഡ് നും ഇടയിൽ ഒരു വോൾടേജ് ഉണ്ട് അപ്പോൾ അവയ്ക്കു ഇടയിൽ ഒരു മൾട്ടിമീറ്റർ വച്ചാൽ നമുക്ക് വോൾടേജ് ലഭിക്കും എന്നാൽ മെഷ് കറന്റ് ആണ് ഉള്ളതെങ്കിൽ അത് ഒരു ബ്രാഞ്ച് കറന്റ് ആകണമെന്നില്ല അത് എവിടെ വേണമെങ്കിലും ആകാം എന്ന് പറയാനാകില്ല ഇപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് ഒരു സർക്യൂട് ഇവിടെ ഉണ്ട് ഗ്രാഫ് എന്നത് ഇതുപോലെ ആണ് ഇതെല്ലാം നോഡുകൾ ആണ് പക്ഷെ ഞാൻ ആശങ്കപ്പെടുന്നത് കറന്റിനെ കുറിച്ചാണ് നമുക്ക് പറയാം ഇപ്പോൾ നാം എടുക്കാൻ പോകുന്നത് ഈ ഏറ്റവും അകത്തുള്ള മെഷിലെ കറന്റ് ആണ് നാം ഈ നാലു ബ്രാഞ്ചുകൾ ആണ് എടുക്കുക എന്തെന്നാൽ അവയാണ് ഈ മെഷിനെ അകപ്പെടുത്തിയിരിക്കുന്നതു അപ്പോൾ ഈ കറന്റ് എന്നത് മെഷ് കറന്റ് ആകില്ല പിന്നെ ഈ മെഷ് കറന്റ് മറ്റേതെങ്കിലും മെഷിലെ കറന്റ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഈ മെഷ് കറന്റ് നോക്കിയാൽ അറിയാം ഇത് നമുക്ക് അളക്കാനാകില്ല ഇവിടെ നമുക്ക് ഒരു സഹായക വേരിയബിൾ ആവശ്യമായുണ്ട് അത് ഈ സർക്യൂട്ടിൽ കാണാം അല്ലെങ്കിൽ കാണാതിരിക്കാ൦ ഇനി നിങ്ങൾക്കു ഈ മെഷിന്റെ പുറത്തു ഒരു കറന്റ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് കറന്റ് നോക്കി നമുക്ക് അത് അളക്കാനാകും എന്നാൽ ഈ ചുവപ്പിൽ അത് സാധ്യമല്ല നമ്മുടെ പ്രാധാന്യം എന്നത് ഈ സർക്യൂട്ടിന്റെ ഉത്തരം ആയതുകൊണ്ട് ഈ വേരിയബിൾ എന്നത് നന്നായി പ്രവർത്തിക്കും നമുക്ക് ഈ മെഷ് അനാലിസിസ് വച്ച് മുന്നോട്ടു പോകാം ഈ മെഷ് കറന്റ് എന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു എല്ലായ്പോഴും ഒരേ ദിശയും പരമ്പരയും തന്നെ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് എല്ലാ ബ്രാഞ്ച് കറന്റും ഒന്നുകിൽ മെഷ് കറന്റ് ആകാം അല്ലെങ്കിൽ അവയുടെ വ്യത്യാസം